മുൻ പ്രഭാഷണത്തിൽ ഞങ്ങൾ ക്ലൌഡ് ക്ലൌഡ് അധിഷ്ഠിത പരിഹാരങ്ങൾ നോക്കി പക്ഷേ ക്ലൌഡ് അധിഷ്ഠിത പരിഹാരങ്ങൾ സാധാരണയായി കേന്ദ്രീകൃതമാണ് അതിനാൽ അടിസ്ഥാനപരമായി ക്ലൌഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ വ്യാവസായിക യന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ട് ഈ വ്യാവസായിക യന്ത്രങ്ങൾ വ്യത്യസ്ത സെൻസറുകൾ ആക്യുവേറ്ററുകൾ ഐഒടി ഉപകരണങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ ഡാറ്റയെല്ലാം അടിസ്ഥാനപരമായി ഒരു നിശ്ചിത ബാൻഡ്വിഡ്ത്ത് ഉള്ള ഒരു നിർദ്ദിഷ്ട ആശയവിനിമയ ചാനലിനു മുകളിലാണ് ഈ എല്ലാ ഡാറ്റയും ഈ വ്യാവസായിക സാഹചര്യങ്ങൾക്കും മെഷിനറികൾക്കും തുടർച്ചയായി ഈ ഡാറ്റ നിശ്ചിത നിശ്ചിത ചാനലിലൂടെ ക്ലൌഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കേന്ദ്രീകൃത എന്റിറ്റിയിലേക്ക് അയയ്ക്കുന്നു അവിടെ ധാരാളം സംഭരണം നിലനിൽക്കുകയും ധാരാളം പ്രോസസ്സിംഗ് നടത്തുകയും ചെയ്യാം ക്ലൌഡിലേക്ക് അയച്ച ഈ ഡാറ്റ വിശകലനം ചെയ്യപ്പെടുന്നു പല തരത്തിലുള്ള അനലിറ്റിക്സ് നടത്തപ്പെടുന്നു വ്യത്യസ്ത അർത്ഥങ്ങൾ ശേഖരിക്കുന്നതിനുള്ള വിശകലനങ്ങൾ തത്സമയം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചില ധാരണകൾ നൽകാം തത്സമയം അല്ലാത്തതും കൂടാതെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ പ്രവചിക്കുന്ന അനലിറ്റിക്സ് ചിലപ്പോൾ പ്രവർത്തനരഹിതമായേക്കാം അതിനുശേഷം ചില യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഒരു യന്ത്രത്തിന്റെ ഒരു നിശ്ചിത ഭാഗം താഴേക്ക് പോകുകയാണെങ്കിൽ അതിനാൽ ഇവയെല്ലാം പ്രവചനാത്മകമാണ് അല്ലെങ്കിൽ നിലവിലെ പ്രവർത്തന വിശകലനങ്ങൾ ക്ലൌഡിൽ ചെയ്യാൻ കഴിയും കേന്ദ്രീകൃത മോഡലുകൾ എല്ലായ്പ്പോഴും നല്ലതല്ലെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും യഥാർത്ഥ സമയ പ്രാധാന്യം വളരെ പ്രാധാന്യമുള്ള IIoT സാഹചര്യങ്ങളിൽ ദ്രുതഗതിയിലുള്ള പ്രതികരണം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് കാരണം നിങ്ങൾ സംസാരിക്കുന്നത് വളരെ ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളെക്കുറിച്ചാണ് വളരെ നിർണായകമാണ് അതിനാൽ പൂർണ്ണമായും ക്ലൌഡ് അടിസ്ഥാനമാക്കിയുള്ള IIoT പരിഹാരങ്ങൾ അനുയോജ്യമല്ലായിരിക്കാം അതിനാൽ നമ്മൾ ഇപ്പോൾ വ്യത്യസ്തമായ സമീപനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെ ഫോഗ് അടിസ്ഥാനമാക്കിയുള്ള സമീപനം എന്ന് വിളിക്കുന്നു അവിടെ നമ്മൾ കണക്കുകൂട്ടുന്ന ഒരു പാളി കുറച്ച് ഭാരം കുറഞ്ഞ കണക്കുകൂട്ടൽ പ്രോസസ്സിംഗ് നടത്തുന്ന ഒരു നേർത്ത പാളി തുടങ്ങിയവയെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് ഉത്ഭവത്തോട് കൂടുതൽ അടുക്കും അതായത് ഈ എഡ്ജ് ഡിവൈസുകളോട് അടുത്ത് ഈ പ്രത്യേക ലെയർ ഈ പ്രത്യേക എഡ്ജ് ലെയറിനും ക്ലൌഡ് ലെയറിനും ഇടയിൽ ഇരിക്കാൻ പോകുന്നു അതിനെ ഫോഗ് ലെയർ എന്ന് വിളിക്കുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നോക്കാം ഈ വ്യത്യസ്ത കേന്ദ്രീകൃതവും വികേന്ദ്രീകൃതവുമായ മാതൃകകളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അതിനാൽ കേന്ദ്രീകൃതമായത് അടിസ്ഥാനപരമായി പൂർണ്ണമായും ക്ലൌഡ് അധിഷ്ഠിതമാണ് അവിടെ നിങ്ങൾക്ക് ഈ വ്യത്യസ്തമായ IIoT ഉപകരണങ്ങളെല്ലാം ഉണ്ട് അത് ധാരാളം ഡാറ്റ എറിയുകയും ഈ ഡാറ്റയെല്ലാം ക്ലൌഡിൽ പ്രോസസ്സ് ചെയ്യുകയും സംഭരിക്കുകയും ചെയ്യും അതിനാൽ ഇത് നിങ്ങളുടെ കേന്ദ്രീകൃതമാണ് മറുവശത്ത് നിങ്ങൾക്ക് ഇതിനകം ക്ലൌഡ് ഉണ്ടായിരുന്നവയുടെ ഒരു സംയോജനമായ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഈ ബോക്സുകൾ പോലുള്ള ഈ ഉപകരണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം ഇത് പ്രതിനിധാനം കാണിച്ചിരിക്കുന്നതാണ് ഇത് നിങ്ങളുടെ ഫോഗ് പോലെയാകും ഇത് കണക്കുകൂട്ടൽ കുറയ്ക്കും ക്ലൌഡിനേക്കാൾ ശേഷി പക്ഷേ ചില പ്രാഥമിക ലെവൽ ഫിൽട്ടറിംഗ് പ്രോസസ്സിംഗ് വേഗത തീരുമാനമെടുക്കൽ തുടങ്ങിയവയ്ക്കായി ചില ശേഷികൾ ഉണ്ട് അതിനാൽ ഇവ നിങ്ങളുടെ എഡ്ജ് ഉപകരണങ്ങളാണ് ഇത് ഇടയിൽ ഇരിക്കുന്ന ഈ ഫോഗ് പാളിയാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് IIoT യ്ക്കുള്ള ഫോഗ് കമ്പ്യൂട്ടിംഗിന്റെ ഈ വ്യത്യസ്ത ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ നോക്കാം അതിനാൽ IIoT ൽ നമ്മൾ വ്യത്യസ്ത സെൻസറുകൾ ആക്യുവേറ്ററുകൾ വ്യത്യസ്ത ഉപകരണങ്ങൾ ഈ മറ്റ് മെഷിനറികളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റ് യന്ത്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് സംസാരിക്കുന്നതായി ഞങ്ങൾ ഇതിനകം കണ്ടു അതിനാൽ ഈ യന്ത്രങ്ങളെല്ലാം മെഷിനറിയിലേക്ക് ഒരു യന്ത്രം മറ്റൊരു യന്ത്രവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മറ്റും നിങ്ങൾക്ക് അറിയാം അതിനാൽ ഇവയെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഈ മെഷീനുകൾ വലിയ വേഗതയിൽ പ്രവർത്തിക്കുന്നു മാത്രമല്ല അവ വ്യത്യസ്ത സെൻസറുകളിലൂടെ വളരെ ഉയർന്ന വേഗതയിൽ ഡാറ്റ അയയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ഈ ഡാറ്റയിൽ പലതും വളരെ സമയ സെൻസിറ്റീവും നിർണായകവുമാണ് അതിനാൽ ഉടനടി നടപടിയോ വേഗത്തിലുള്ള പ്രതികരണമോ ആവശ്യമാണ് അതിനാൽ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ക്ലൌഡിലേക്ക് ഡാറ്റ അയയ്ക്കുന്നതിനും അത് തിരികെ അയയ്ക്കുന്നതിനും കാലതാമസം വരുത്തുന്നത് വളരെ അഭികാമ്യമല്ല കാരണം എല്ലാം കാലതാമസം വർദ്ധിപ്പിക്കും അത് ചില അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം വ്യത്യസ്ത ആളുകൾ പ്രവർത്തിപ്പിക്കുന്ന മെഷീനുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഡാറ്റ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നാലും വ്യത്യസ്ത അപകടങ്ങൾ സംഭവിക്കും ആ സമയം ഒരു മില്ലി സെക്കന്റ് അല്ലെങ്കിൽ മൈക്രോ സെക്കന്റ് പോലും ആ സമയം അപകടം സംഭവിച്ചേക്കാം കാരണം എല്ലാം വളരെ വേഗത്തിൽ നീങ്ങുന്നു ധാരാളം ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നതും മറ്റും അതിനാൽ ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ വളരെ ചലനാത്മകമായ ഒരു സാഹചര്യമുണ്ട് അതിനാൽ ഡാറ്റയുടെ വൈവിധ്യം തത്സമയം കൈകാര്യം ചെയ്യുക കഴിയുന്നത്ര അടുത്ത് കഴിയുന്നത്ര വേഗത്തിൽ ഡാറ്റ ഉത്ഭവിക്കുന്ന ഘട്ടത്തിലേക്ക് കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാന വെല്ലുവിളി അതിനാൽ വ്യാവസായിക ഓട്ടോമേഷന്റെ ബലഹീനതകൾ പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം അതിനാലാണ് ഫോഗ് കമ്പ്യൂട്ടിംഗ് സാങ്കേതികവിദ്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ പുതിയ സാങ്കേതികവിദ്യ ഈ പ്രത്യേക കാര്യത്തിൽ സഹായിക്കുന്നത് പിന്നെ എന്തിനാണ് ഫോഗ് കമ്പ്യൂട്ടിംഗ് വ്യാവസായിക ഓട്ടോമേഷന്റെ നിലവിലുള്ള ബലഹീനതകൾ പരിപാലിക്കുന്നത് ക്ലൌഡ് അധിഷ്ഠിത പരിഹാരങ്ങളും മറ്റും കൂടുതൽ സവിശേഷതകൾക്കൊപ്പം പുതിയ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ പ്രാപ്തമാക്കുകയും മെച്ചപ്പെട്ടതും വേഗത്തിലുള്ളതുമായ വിശകലനങ്ങളുടെ സഹായത്തോടെ തത്സമയ കാര്യക്ഷമമായ പ്രക്രിയ നിയന്ത്രണ സംവിധാനങ്ങൾ പ്രാപ്തമാക്കുകയും നിലവിലുള്ള പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ സമ്പന്നമാക്കുകയും ചെയ്യുന്നു ഫോഗ് കമ്പ്യൂട്ടിംഗ് സഹായിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ ഈ ഫോഗ് കമ്പ്യൂട്ടിംഗ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഈ വ്യത്യസ്ത പാളികൾ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങളുടെ വ്യത്യസ്ത മെഷീനുകളിൽ അടിസ്ഥാനപരമായി ഘടിപ്പിച്ചിട്ടുള്ള ഈ അവസാന ഉപകരണങ്ങളുടെ ഈ പാളികൾ ഞങ്ങളുടെ പക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോഗ് ഉണ്ട് ഇത് നിങ്ങളുടെ ക്ലൌഡ് അതിനാൽ ഞങ്ങൾക്ക് ഈ 3 നിരകളുണ്ട് അതിനാൽ ഫോഗ് നോഡിലെ ഫോഗ് ലെയറിൽ ചില എക്സിക്യൂഷനുകൾ നടത്തുക ബാക്കിയുള്ളവ കൂടുതൽ പ്രോസസ്സിംഗിനായി ക്ലൌഡിലേക്ക് അയയ്ക്കുക എന്നതാണ് ആശയം എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഈ വ്യത്യസ്ത ഫോഗ് നോഡുകൾ അടിസ്ഥാനപരമായി വ്യത്യസ്ത അന്തിമ ഉപകരണങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഓരോ ഫോഗ് നോഡും അടിസ്ഥാനപരമായി കുറച്ച് അന്തിമ ഉപകരണങ്ങളെ പരിപാലിക്കുന്നു വാസ്തവത്തിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഈ ഫോഗ് നോഡുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കാം അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കാം അതിനാൽ ഈ ഫോഗ് അന്തിമ ഉപകരണങ്ങളുടെ വ്യത്യസ്ത ക്ലസ്റ്ററുകൾ ഇവയാണ് ഈ ഫോഗ് നോഡുകൾ ഇതുപോലെ പരസ്പരം ബന്ധിപ്പിക്കാവുന്നതാണ് അതിനാൽ IIoT യ്ക്കുള്ള ഫോഗ് കമ്പ്യൂട്ടിംഗിന്റെ മൊത്തത്തിലുള്ള വാസ്തുവിദ്യയാണിത് അതിനാൽ ഫോഗ് കമ്പ്യൂട്ടിംഗ് മെഷീനുകളുടെ പ്രകടനം മെച്ചപ്പെടുത്താനും ഡാറ്റ അനലിറ്റിക്സ് പ്രോസസ്സ് ചെയ്യാനും അങ്ങനെ തീരുമാനമെടുക്കൽ ഒപ്റ്റിമൈസ് ചെയ്യാനും സഹായിക്കുന്നു ഫോഗ് കമ്പ്യൂട്ടിംഗിന്റെ സഹായത്തോടെയും ഡാറ്റ വർഗ്ഗീകരണം അതായത് ഒരേ ഉറവിടത്തിൽ നിന്ന് വരുന്ന ഡാറ്റയുടെ വർഗ്ഗീകരണം തുടങ്ങിയ വ്യത്യസ്ത സവിശേഷതകളും ഉപയോഗിച്ച് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നടത്താം കൂടാതെ ഫോഗ് കമ്പ്യൂട്ടിംഗിന്റെ സഹായത്തോടെ അത്തരം ഡാറ്റ വേർതിരിക്കാൻ ശ്രമിക്കാം തത്സമയ നിയന്ത്രണത്തിനായി അരികിൽ നടപ്പിലാക്കാൻ കഴിയുന്ന വ്യത്യസ്ത അൽഗോരിതങ്ങൾക്ക് ഫോഗ് കമ്പ്യൂട്ടിംഗിന് പിന്തുണയുണ്ട് വ്യാവസായിക സാഹചര്യങ്ങൾക്ക് ഈ ഉപകരണങ്ങളെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് ഡാറ്റ അയയ്ക്കുകയും ഈ ഡാറ്റ തുടർച്ചയായി വലിയ അളവിൽ തത്സമയം അയയ്ക്കുകയും വേണം അങ്ങനെ അവ സ്ട്രീം ചെയ്യുന്നു അതിനാൽ വ്യാവസായിക ക്രമീകരണങ്ങളിൽ ഉയർന്ന ബാൻഡ്വിഡ്ത്ത് ആവശ്യകതകളുണ്ട് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഫിൽട്ടറേഷൻ പ്രക്രിയയിലൂടെ ജനക്കൂട്ടത്തിൽ നിന്നുള്ള അനാവശ്യമായ ശബ്ദമുണ്ടാക്കുന്ന ഡാറ്റ കഴിയുന്നത്ര തടയേണ്ടത് ആവശ്യമാണ് അതിനാൽ ഈ ഫിൽട്ടറേഷനും ഫോഗ്ൽ ചെയ്യാം അതിനാൽ ഈ ആവശ്യകതകളെല്ലാം പരിപാലിക്കുന്നതും ചില കണക്കുകൂട്ടൽ ഫിൽട്രേഷൻ അടിസ്ഥാന വിശകലനങ്ങൾ തുടങ്ങിയവയുടെ സാന്ദ്രതയും ഫോഗ് പാളിയിൽ ചെയ്യാവുന്നതാണ് അതിനാൽ ഒരു ഫോഗ്പ്രവർത്തനക്ഷമമാക്കിയ IIoT പരിഹാരം തത്സമയ നിരീക്ഷണവും ദൃശ്യവൽക്കരണവും അവസാനത്തെ സുരക്ഷ അവസാനിപ്പിക്കുന്നതും സ്കേലബിളിറ്റി പ്രശ്നങ്ങൾ പരിപാലിക്കുന്നതും വാസ്തുവിദ്യയെ മൊത്തത്തിൽ വഴങ്ങുന്നതാക്കുന്നതും മൊത്തത്തിലുള്ള ചെലവും നോവൽ വ്യാപാര ആശയങ്ങളും കുറയ്ക്കാൻ സഹായിക്കും അതിനാൽ ഫോഗ് പ്രവർത്തനക്ഷമമാക്കിയ IIoT ന്റെ വ്യത്യസ്ത സവിശേഷതകളിൽ ചിലത് ഇവയാണ് ഫോഗ് കമ്പ്യൂട്ടിംഗിന് വ്യത്യസ്ത ഉപയോഗങ്ങളുണ്ട് ഖനന വ്യവസായത്തിലും വൈദ്യുതി മേഖലയിലും സ്മാർട്ട് ഗ്രിഡിലും ഗതാഗത മേഖലയിലും എണ്ണ വാതക വ്യവസായത്തിലും മറ്റും ഉപയോഗിക്കാം ഭൂഗർഭ കൽക്കരി ഖനികളിലെ ചില ഖനന പദ്ധതികൾക്കായി ഞങ്ങൾ തന്നെ ഫോഗ് അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ സ്മാർട്ട് ഗ്രിഡിനെ പോലെ ഫോഗ് വളരെ പ്രധാനപ്പെട്ട ഗതാഗതം എണ്ണ വാതക വ്യവസായം തുടങ്ങിയവയാണ് അതിനാൽ മൂടൽമഞ്ഞിന്റെ മറ്റ് നിരവധി ആപ്ലിക്കേഷനുകൾ ഉള്ള ഒരേയൊരു പട്ടിക ഇതല്ല അതിനാൽ ഖനനത്തിൻറെ കാര്യമെടുക്കുക ഖനികൾ സാധാരണയായി അപകടസാധ്യതയുള്ള പരിതസ്ഥിതികളാണെന്ന് ഉൽപാദനക്ഷമത തീർച്ചയായും പ്രധാനമാണ് പക്ഷേ മൊത്തത്തിലുള്ള സുരക്ഷയും വളരെ പ്രധാനമാണ് അടിസ്ഥാനപരമായി വലിയ വേഗതയിൽ പ്രവർത്തിക്കുകയും തുടർച്ചയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത ഖനന യന്ത്രങ്ങളുണ്ട് അതിനാൽ ഖനന യന്ത്രങ്ങൾ അപകടകരമായ ഈ വ്യത്യസ്ത ഭൂഗർഭ ഖനി വാതകങ്ങളുടെ നിരീക്ഷണം എന്നിവ കാരണം അപകടങ്ങൾ വളരെ സാധാരണമാണ് അതിനാൽ ഈ വ്യത്യസ്ത പ്രശ്നങ്ങളെല്ലാം അവിടെയുണ്ട് അതിനാൽ ഫോഗ് സഹായിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ ഖനന വ്യവസായം കണ്ടെത്തുന്നു കാരണം മൊത്തത്തിലുള്ള പ്രതികരണ സമയം കുറയ്ക്കുന്നതിന് ഫോഗ് സഹായിക്കും ഫോഗ് പ്രതികരണ സമയം കുറയ്ക്കൽ കൃത്യത മെച്ചപ്പെടുത്തൽ എന്നിവയുടെ സഹായത്തോടെ കൃത്യത മെച്ചപ്പെടുത്താൻ കഴിയും ഇവയെല്ലാം ഖനന വ്യവസായത്തിൽ ഐഒടി പരിഹാരങ്ങളുടെ ഫോഗ് വിന്യാസത്തിന്റെ സഹായത്തോടെ ചെയ്യാം അതിനാൽ ഇത് ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ മറ്റ് വ്യവസായ മേഖലകൾക്കും അതുപോലെ സ്മാർട്ട് ഗ്രിഡ് പവർ വ്യവസായത്തിനും ദിവസത്തിന്റെ സമയവും വിലനിർണ്ണയവും പോലുള്ള നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്കനുസൃതമായി അവ ഉപഭോക്താക്കൾ പ്രോഗ്രാം ചെയ്യും വ്യത്യസ്ത ഉപകരണങ്ങൾ ഷെഡ്യൂൾ ചെയ്യാം അതിനാൽ ചില സന്ദർഭങ്ങളിൽ ആവശ്യമായി വരുന്നത് ചലനാത്മക ഡിമാൻഡ് ഷെഡ്യൂളിംഗിനായി അടിസ്ഥാനപരമായി ഈ വ്യത്യസ്ത പരിഹാരങ്ങൾ നടപ്പിലാക്കുകയും മറ്റുള്ളവ എത്രയും വേഗം പൂർത്തിയാക്കുകയും വേണം അതിനാൽ പ്രതികരണങ്ങൾ ഈ അവസാന ഉപകരണങ്ങളിലേക്കും യന്ത്രങ്ങളിലേക്കും വേഗത്തിൽ അയയ്ക്കാൻ കഴിയും അതിനാൽ പ്രതികരണ സമയം മെച്ചപ്പെടുത്താനാകും അതിനാൽ അതുകൊണ്ടാണ് സ്മാർട്ട് ഗ്രിഡിന്റെയും പവർ മേഖലയുടെയും കാര്യത്തിൽ ഫോഗ് നടപ്പിലാക്കുന്നത് വളരെ രസകരവും കാര്യക്ഷമവുമാണ് ഗതാഗതത്തിന്റെ കാര്യത്തിൽ സ്മാർട്ട് പാർക്കിംഗ് തുടങ്ങിയവ ഖനനന്റെയും സ്മാർട്ട് ഗ്രിഡിന്റെയും പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങളാൽ അടിസ്ഥാനപരമായി ഈ ഫോഗ് കമ്പ്യൂട്ടിംഗ് എല്ലാം ഇവിടെയും ബാധകമാണ് അതിനാൽ ഫോഗ് അടിസ്ഥാനമാക്കിയുള്ള ഖനനം മൂടൽമഞ്ഞ് അടിസ്ഥാനമാക്കിയുള്ള സ്മാർട്ട് ഗ്രിഡ് എന്നിവ ആകർഷകമാക്കുന്ന ഫോഗ് കമ്പ്യൂട്ടിംഗിന്റെ വ്യത്യസ്ത നേട്ടങ്ങൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി എക്സ്ട്രാപോലേറ്റ് ചെയ്യാൻ കഴിയും

എണ്ണ വാതക വ്യവസായം ആ ഗ്യാസ് പൈപ്പ് ട്രാൻസ്മിഷൻ ലൈനുകൾ ഘട്ടം ഘട്ടമായുള്ള ഓട്ടോമേഷൻ തത്സമയ കണക്കുകൂട്ടൽ നിയന്ത്രണം മാനേജ്മെന്റ് സ്കേലബിളിറ്റിക്ക് പിന്തുണ പൊരുത്തപ്പെടുത്തൽ തുടങ്ങിയവയെല്ലാം ഫോഗ് അടിസ്ഥാനമാക്കിയുള്ള പരിഹാരം ഉപയോഗിച്ച് ചെയ്യാവുന്ന വ്യത്യസ്ത കാര്യങ്ങളാണ് അതിനാൽ ഫോഗ് അഡ്വാൻസ്ഡ് ഹാർഡ്വെയറും വെർച്വലൈസേഷൻ ഓട്ടോമേഷൻ ആശയവിനിമയം വിശകലനം പ്രവചനം തുടങ്ങിയ സോഫ്റ്റ്വെയർ സവിശേഷതകളും ഉപയോഗിച്ച് ഇവയെല്ലാം ചെയ്യാനാകും ഫോഗ് അടിസ്ഥാനമാക്കിയുള്ള IIoT ന്റെ സഹായത്തോടെ അസറ്റ് മാനേജ്മെന്റ് നടത്താം അവിടെ അനുസൃതമായ ക്ലൌഡ് ഫോഗ് അനലിറ്റിക്സ് നടപ്പിലാക്കാം മെഷീനുകളുടെ വിദൂര മാനേജ്മെന്റ് നടത്താം ഉർജ്ജ മാനേജ്മെന്റ് നടത്താം ഫലപ്രദമായ ഉത്പാദനം അളവിലുള്ള ഗുണനിലവാരം ഇവയെല്ലാം അസറ്റിനായി ചെയ്യാവുന്നതാണ് ഫോഗ് അടിസ്ഥാനമാക്കിയുള്ള IIoT പ്രശ്നങ്ങൾ ഉപയോഗിച്ച് മാനേജ്മെന്റ് വ്യവസായങ്ങൾക്കായുള്ള ഭാവി നിരീക്ഷണവും നിയന്ത്രണ സംവിധാനങ്ങളും ഫോഗ് ഉപയോഗിച്ചുള്ള IIoT അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ ബിസിനസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവയാണ് സാധാരണയായി ബിസിനസിനെ ബാധിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങൾ അതിനാൽ ഈ ഘടകങ്ങളെ ഈ പ്രത്യേക രീതിയിൽ തരംതിരിക്കാം നിങ്ങൾക്ക് ഈ ഐടി അധിഷ്ഠിത ഘടകങ്ങളും ഒടി അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങളും ഉണ്ട് ഐടി എന്നാൽ വിവര സാങ്കേതികവിദ്യയും ഒടി എന്നാൽ പ്രവർത്തന സാങ്കേതികവിദ്യയും ഫോഗ്ന്റെ സഹായത്തോടെ ഈ വ്യത്യസ്ത ഘടകങ്ങൾ ശരിയായി നടപ്പിലാക്കാൻ കഴിയും അതിനാൽ വ്യത്യസ്ത ഓപ്പറേഷൻ ടെക്നോളജീസ് ഘടകങ്ങളും ഐടി ഘടകങ്ങളും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആവശ്യകതകൾ പരിഹരിക്കുന്നതിന് ഫോഗ് എങ്ങനെ സഹായിക്കും അതിനാൽ ഐടി ഘടകങ്ങളിൽ പ്ലാന്റ് മേൽനോട്ടം എന്റർപ്രൈസ് തുടങ്ങിയവ ഉൾപ്പെടുന്നു അതേസമയം ഒടി ഘടകങ്ങളിൽ പ്രോസസ്സ് നിയന്ത്രണം സെൻസർ ആക്യുവേറ്റർ നിയന്ത്രണം യൂണിറ്റ് നിയന്ത്രണം സെൽ നിയന്ത്രണം തുടങ്ങിയവ ഉൾപ്പെടുന്നു അതിനാൽ ഇവ വ്യത്യസ്ത OT ഘടകങ്ങളാണ് ഈ OT പ്രവർത്തന സാങ്കേതിക ഘടകങ്ങളാണ് സാധാരണയായി ഈ വ്യാവസായിക ഓട്ടോമേഷൻ ക്രമീകരണങ്ങളിൽ പ്ലാന്റ് മേൽനോട്ടം എന്റർപ്രൈസ് നിയന്ത്രണം തുടങ്ങിയവയുടെ IT ഘടകങ്ങളെ മറികടക്കുന്നത് ഈ ഐ ബിസിനസ്സ് ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഇവിടെയാണ് ഈ ഫോഗ് സഹായിക്കുന്നത് അതിനാൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം വ്യാവസായിക സാഹചര്യങ്ങൾക്കായി ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ ക്ലൌഡ് സേവന ദാതാക്കളെപ്പോലെ വ്യത്യസ്ത ഫോഗ് പ്ലാറ്റ്ഫോം സേവനദാതാക്കൾ ഇതിനകം അവിടെയുണ്ട് അതിനാൽ ഒന്ന് ഫോഗ് ഹോൺ ആണ് അടുത്തത് നെബിയോളോ മൂന്നാമത് ക്രോസ്സർ നാലാമത്തേത് സോൺ എന്ന് പറയുക അതിനാൽ ഇവ ഈ ഫോഗ് പ്ലാറ്റ്ഫോം സേവന ദാതാക്കളിൽ ചിലതാണ് അതിനാൽ വേഗത്തിലുള്ള പ്രോസസ്സിംഗിനും വിശകലനത്തിനും പ്രതികരണത്തിനുമായി ഫോഗ്ഹോൺ ചുരുക്കത്തിൽ എഡ്ജ് നെറ്റ്വർക്ക് പരിഹാരം വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി എഡ്ജ് കമ്പ്യൂട്ടിംഗ് പ്രവർത്തനക്ഷമമാക്കുന്നതിന് നൽകുന്ന ഒരു ബുദ്ധിമാനായ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് Nebbiolo അടിസ്ഥാനപരമായി IT OT എന്നിവയുടെ ഈ സംയോജനത്തിൽ സഹായിക്കുന്നു ഈ വ്യത്യസ്ത ഘടകങ്ങളെല്ലാം ഈ സംയോജനം വാഗ്ദാനം ചെയ്യുന്നത് നെബിയോളോയുടെ സഹായത്തോടെയാണ് അവയ്ക്ക് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളായ fogOS fogNode fogSM തുടങ്ങിയവയുണ്ട് അതിനാൽ ഈ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഈ IT യും OT യും തമ്മിലുള്ള ഈ ബന്ധം സാധ്യമാണ് അസറ്റ് ഡാറ്റയ്ക്കുള്ള ഒരു എഡ്ജ് നോഡ് സോഫ്റ്റ്വെയർ പരിഹാരമാണ് ക്രോസർ അതിനാൽ ഇത് അടിസ്ഥാനപരമായി വ്യത്യസ്ത മെഷീനുകളായ പിഎൽസികൾ അന്തിമ ഉപകരണങ്ങൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നു കൂടാതെ വ്യത്യസ്ത തരം പ്രോട്ടോക്കോളുകളെ പിന്തുണയ്ക്കുന്നു സോണം അടിസ്ഥാനപരമായി ഉപഭോക്തൃ ഹാർഡ്വെയറിനായി വിതരണം ചെയ്ത ക്ലൌഡ് സേവനമാണ് ഇത് അടിസ്ഥാനപരമായി ഒരു മൂടൽമഞ്ഞ പരിഹാരമാണ് അവയ്ക്ക് ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ വീഡിയോ സ്ട്രീമിംഗ് മെഷീൻ ലേണിംഗ് വീഡിയോ റെൻഡറിംഗ് എന്നിവയെ പിന്തുണയ്ക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ബ്ലോക്ക് ചെയിൻ ഒരുപക്ഷേ നിങ്ങളിൽ മിക്കവർക്കും ഇതിനകം പരിചിതമായിരിക്കാം ബ്ലോക്ക് ചെയിൻ സുരക്ഷയ്ക്ക് നല്ലതാണ് പ്രത്യേകിച്ച് വികേന്ദ്രീകൃത സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു മാത്രമല്ല കേന്ദ്രീകൃതവും അതിനാൽ ഇൻഫ്രാസ്ട്രക്ചർ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത സേവനങ്ങളുടെ മൊത്തത്തിലുള്ള സുരക്ഷ അടിസ്ഥാനപരമായി ഉപയോഗപ്രദവും നിലവിൽ വളരെ ജനപ്രിയവുമാണ് അതിനാൽ ഇത് അവസാനിക്കുന്നു കഴിഞ്ഞ കുറച്ച് സ്ലൈഡുകളിൽ ഞങ്ങൾ കടന്നുപോയ ഈ വ്യത്യസ്ത റഫറൻസുകൾ ഇവയാണ് ലഭ്യമായ ഈ വ്യത്യസ്ത ഫോഗ് അധിഷ്ഠിത സേവനങ്ങൾ അവ എങ്ങനെ ക്ലൌഡുമായി സംയോജിപ്പിക്കാം അങ്ങനെ ഇവഫോഗ്ണ് ഞങ്ങൾ ചർച്ച ചെയ്ത IIoT സാഹചര്യങ്ങൾക്കായുള്ള പരിഹാരങ്ങൾ അതിനാൽ ഇവ വ്യത്യസ്ത റഫറൻസുകളാണ് ഞങ്ങൾ ഈ മൂടൽമഞ്ഞ് അടിസ്ഥാനമാക്കിയുള്ള പരിഹാരത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു ഫോഗ് പരിഹാരമല്ല ക്ലൌഡുനൊപ്പം വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന ഒരു അനുബന്ധ പരിഹാരമാണ് ഫോഗ് മിക്ക കേസുകളിലും ഫോഗ് സ്വന്തമായി നിൽക്കുന്നില്ല അതിനാൽ ഫോഗ് ക്ലൌഡു ഒന്നിച്ച് ഒരു വിപരീത പരിഹാരമാണ് ഈ IIoT നടപ്പിലാക്കൽ അല്ലെങ്കിൽ വിന്യാസ സാഹചര്യങ്ങളിൽ മിക്കതും ഉപയോഗപ്രദമായി കാണപ്പെടുന്നത്